നമസ്കാരം ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ECM ശൃംഖലകളുടെ ഘടനാപരമായ സവിശേഷതകൾ എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താമെന്നുള്ള ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നു മേല്പറഞ്ഞ സന്ദർഭത്തിൽ റിയോളജി എന്ന പഠനമേഖലയെ കുറിച്ച് ലളിതമായ ഒരു ആമുഖം ഞാൻ നൽകിയിരുന്നതാണ് അക്ഷരാർത്ഥത്തിൽ വിവിധയിനം ഫോഴ്സുകൾക്ക് വിധേയമാകുമ്പോൾ വസ്തുക്കളുടെ ഘടനാപരമായ സവിശേഷതകളിൽ എപ്രകാരം വ്യതിയാനം സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കുന്ന പഠനമേഖലയാണ് റിയോളജി ഒരു വസ്തുവിൽ സാധ്യമായ ഒട്ടനേകം ഡിഫോർമേഷനുകളുടെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ലെക്ച്ചറിൽ സൂചന നൽകിയിരുന്നു മേല്പറഞ്ഞതിൽ ടെൻഷൻ കംപ്രഷൻ ഷിയർ അതുപോലെ ബെൻഡിങ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് ടെൻഷനും കംപ്രഷനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല നേരെ ഉണ്ടായിരുന്ന ഒരു വസ്തുവിനെ അല്പം ഫോഴ്സ് ചെലുത്തി ഈ കാണുന്ന ഘടനയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് ബെൻഡിങ് ഷിയർ എന്നാൽ എന്താണെന്ന് നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു ഈ ബ്ലോക്ക് അഥവാ കട്ടിയുടെ മുകൾ ഭാഗത്തായി നമ്മൾ ഒരു ടാൻജെൻഷ്യൽ ഫോഴ്സ് ചെലുത്തുകയാണെന്ന് കരുതുക മേല്പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായി കട്ടിയുടെ ഘടനയിൽ Δx എന്ന തോതിൽ ഈ കാണുന്ന രീതിയിലേക്ക് രൂപഭേദം സംഭവിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഷിയറിന്റെ സമവാക്യമെന്നത് ΔxL എന്ന് നമുക്ക് ലഭ്യമാകുന്നു ഇവിടെ L എന്നത് യഥാർത്ഥത്തിൽ നീളത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഉത്ക്കൃഷ്ട ഖരാവസ്ഥയിലുള്ള വസ്തുവും ഉത്ക്കൃഷ്ട ദ്രവരൂപത്തിലുള്ള വസ്തുവും തമ്മിൽ സ്വഭാവ സവിശേഷതകളിൽ നിയതമായ വ്യത്യാസം പ്രകടമാണ് ഖരാവസ്ഥയിലുള്ള വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഷിയർ സ്ട്രെസ് എന്നത് Gγ യാണ് ഇതിൽ G യെ ഷിയർ മോഡുലസ് എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് G യെ ആധാരമാക്കി ഇൻ കംപ്രെസ്സിബിൾ മെറ്റീരിയലുകളിൽ കാണപ്പെടുന്ന യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും Young's Modulus of Elasticity നമ്മൾ മുൻപത്തെ ലെക്ച്ചറിൽ പരിചയപ്പെട്ടതാണ് ആയതിനാൽ ഈ കാണുന്ന ഷിയറിനെ നമുക്ക് σ Eε എന്ന് എഴുതാവുന്നതാണ് ഇവിടെ E എന്നത് G യുടെ മൂന്ന് മടങ്ങാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഖരരൂപത്തിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം τ യുടെ മൂല്യമെന്നത് Gγ എന്നാകുന്നു എന്നാൽ ദ്രവരൂപത്തിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂട്ടന്റെ വിസ്കോസിറ്റിയുടെ നിയമം Newton's Law of Viscosity കണക്കിലെടുക്കേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ τ യുടെ നിരക്കെന്നത് τ µdudy എന്ന് നമുക്ക് ലഭ്യമാകുന്നു എന്താണ് ഈ കാണുന്ന dudy dudy എന്നാൽ ddy dxdy ക്ക് തുല്യമാണ് എന്നതാണ് വസ്തുത dxdy എന്നാൽ യഥാർത്ഥത്തിൽ നിർവചനം പ്രകാരമുള്ള ഷിയർ γ തന്നെയാണ് എന്നാൽ ddt γ എന്നത് γ നോട് തുല്യമാണ് മേല്പറഞ്ഞ സമവാക്യം τ µγ എന്ന് എഴുതുന്നതിന് സമാനമാണ് ഇവിടെ പ്രകടമാകുന്ന പ്രധാന വ്യത്യാസമെന്തെന്നാൽ ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം τ യുടെ നിരക്ക് ഷിയറിനോട് ആനുപാതികമാണ് എന്നാൽ ദ്രവരൂപത്തിലുള്ള ഒരു വസ്തുവിൽ τ യുടെ മൂല്യം ഷിയർ റേറ്റിനോട് ആനുപാതികമായി നിലനിൽകുന്നതായിട്ടാണ് നമുക്ക് കാണാനാകുന്നത് ഇവിടെ കാണപ്പെടുന്ന പ്രൊപോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്നത് ഷിയർ മോഡുലസാണ് എന്നാൽ ഇവിടെ അത് വിസ്കോസിറ്റിയെ സൂചിപ്പിക്കുന്ന µ ആണ് എന്ന സമവാക്യത്തിൽ µ എന്നത് വിസ്കോസിറ്റിയെ സൂചിപ്പിക്കുന്നു µ വിന്റെ MKS യൂണിറ്റ് യഥാർത്ഥത്തിൽ Pas എന്നതാണ് എന്നാൽ CGS യൂണിറ്റ് പ്രകാരം µ വിനെ നമുക്ക് പോയ്സ് അഥവാ P എന്ന് ലളിതമായി അഭിസംബോധന ചെയ്യാവുന്നതാണ് മുറിക്കുള്ളിലെ താപനില അടിസ്ഥാനപ്പെടുത്തിയുള്ള ജലത്തിന്റെ വിസ്കോസിറ്റി അഥവാ µ എന്നത് 1cP ആണ് മേല്പറഞ്ഞ µ വിന്റെ നിരക്ക് താപനിലയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാൽ വസ്തുവിൽ µ വിന്റെ നിരക്ക് കോൺസ്റ്റന്റാവുകയും ഷിയർ റേറ്റിനെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവയെ നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇവിടെ µ കോൺസ്റ്റന്റാണെന്ന് മാത്രമല്ല അവയിൽ γ നോട് അനുസൃതമായി മാറ്റം സംഭവിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ECM ശൃംഖലയുടെ വിസ്കോ ഇലാസ്റ്റിസിറ്റി പരിചയപ്പെടുത്തുന്നതിനായി ഈ കാണുന്ന സ്ലൈഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നിരുന്നതാണ് ഈ കാണുന്നത് ലീനിയർ ഇലാസ്റ്റിക് വസ്തുക്കളുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് മേല്പറഞ്ഞ കർവ് ലീനിയറായ മാതൃകയിലാണ് ഉള്ളത് എന്നാൽ നോൺ ലീനിയർ ഇലാസ്റ്റിക് വസ്തുക്കളുടെ കാര്യത്തിൽ മേല്കാണുന്ന കർവ് സ്വാഭാവികമായും നോൺ ലീനിയർ ആകാനുള്ള സാധ്യത ഏറെയാണ് ഇവിടെ E കോൺസ്റ്റന്റല്ല എന്നാൽ ഇവിടെയാണെങ്കിൽ E യുടെ നിരക്ക് കോൺസ്റ്റന്റ് ആണ് കാരണം ഈ കാണുന്ന കർവിന്റെ സ്ലോപ്പ് നമുക്ക് E എന്നാണ് ലഭ്യമാകുന്നത് ECM ശൃംഖലകൾ പോലെയുള്ള വിസ്കോ ഇലാസ്റ്റിക്ക് വസ്തുക്കളുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ രൂപഘടന ലളിതമായി മനസ്സിലാക്കുവാൻ നമുക്ക് ഈ കാണുന്ന കൊളാജെൻ ജെല്ലിന്റെ ഉദാഹരണം തന്നെയെടുക്കാം മേല്പറഞ്ഞ കൊളാജെൻ ജെല്ലിനെ യൂണി ആക്സിയൽ ടെസ്റ്ററിൽ നമുക്ക് ഇറക്കിവെക്കാം ഈ ഉപകരണം ജെല്ലിനെ നിരന്തരം വലിച്ചുനീട്ടിക്കൊണ്ടേയിരിക്കും ഓരോ പുനരാവർത്തനവും ഒരു സൈക്കിൾ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ തവണ സ്ട്രെച്ച് ചെയ്യുമ്പോഴും പിന്നീട് വിപരീതഗതിയിൽ വിരാമത്തിലേക്ക് വരുമ്പോഴും വിഭിന്നമായ പാതകളാണ് ജെൽ പിന്തുടരുന്നത് എന്ന് ഈ കാണുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു മാത്രമല്ല ഓരോ സൈക്കിളിന്റെയും എണ്ണം കൂടുന്നതനുസരിച്ച് സ്ലോപിന്റെ ശരാശരി നിരക്കിലും ഗണ്യമായ വർദ്ധനവ് പ്രകടമാകുന്നുണ്ട് എന്നതാണ് വസ്തുത ചില ചലനാത്മകമായ പുനഃക്രമീകരണങ്ങൾ പ്രവർത്തനത്തിലുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന ഇതിനെ കുറിച്ച് ഗണ്യമായ ധാരണ ലഭ്യമാകണമെങ്കിൽ ECM ശൃംഖലകളുടെ പ്രവർത്തന സംബന്ധിയായ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഘടനാപരമായി റാൻഡമായും അലൈൻഡ് ആയും നിർമ്മിച്ച തട്ടുകളുടെ കാര്യം ഒരു പക്ഷെ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും കോശങ്ങൾ വിവിധയിനം ദിശാസൂചനകളോട് എപ്രകാരം പ്രതികരിക്കുന്നുവെന്ന് ഇവ നമുക്ക് പറഞ്ഞു തരുന്നു ഉദാഹരണത്തിന് റാൻഡം മെട്രിക്സിൽ കോശങ്ങൾ ചിട്ടയായ രീതിയിലല്ലാതെ അലസമായി വിരാചിക്കുന്നതായി നമുക്ക് വ്യക്തമാകുന്നു അവയ്ക്ക് നിയതമായ പെർസിസ്റ്റന്റ് മോഷൻ സാധ്യമായെന്ന് വരില്ല എന്നാൽ ഒരു അലൈൻഡ് മെട്രിക്സിൽ സ്ഥിതി മറ്റൊന്നാണ് ഇവിടെ കോശങ്ങൾ പ്രതലത്തിൽ ഉൾകൊള്ളുന്ന ഫൈബറുകളിൽ നിന്നും ലഭ്യമാകുന്ന ദിശാസൂചനകൾക്ക് അനുസൃതമായി നിയതമായ ചിട്ടയോടെ വിന്യസിക്കുന്നതായി നമുക്ക് കാണാനാകും മേല്പറഞ്ഞ റാൻഡം മെട്രിക്സും അലൈൻഡ് മെട്രിക്സും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുക ഈ കാണുന്ന കൊളാജെൻ തട്ടിന്റെ ഗുണഗണങ്ങൾ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഒന്ന് ലിങ്കിങാണ് മറ്റൊന്ന് അലൈൻമെന്റും അലൈൻമെന്റ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചൌമെയ്ന്റെ ഒരു ഉപമ സൂചിപ്പിച്ചിരുന്നു ഈ കാണുന്ന ശൃംഖലയിൽ നിന്നും ഒരിഴ വേർപെടുത്തുവാൻ ശ്രമിച്ചാൽ നമുക്ക് മേല്പറഞ്ഞ നൂലിഴകളുടെ പ്രത്യക്ഷമായ പ്രതിരോധം അനുഭവപ്പെടും എന്നതാണ് വസ്തുത പ്രത്യക്ഷത്തിൽ ഇവിടെ ഈ കാണുന്ന ഇഴകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പശയുടെ സാന്നിധ്യമൊന്നും ഇല്ലെങ്കിലും അവയ്ക്കിടയിൽ നിയതമായ ഘർഷണം രൂപപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം നിയതമായ സ്റ്റിഫ്നെസ്സ് ഉള്ളതിനാൽ തന്നെ റാൻഡം ശൃംഖലകളിൽ സ്വാഭാവികമായും പ്രതിരോധത്തിനുള്ള സാധ്യത പ്രകടമാണ് എന്നാൽ ഈ കാണുന്ന രീതിയിലാണ് ഫൈബറുകൾ ചേർത്തുവെച്ചിരിക്കുന്നത് എന്ന് കരുതുക ഈ ഫൈബറിൽ ഞാൻ നിയതമായ ഒരു ഫോഴ്സ് ചെലുത്തുമ്പോൾ മറ്റ് രണ്ട് ഫൈബറുകളെ തനിച്ചാക്കി ഇവ മാത്രം വിട്ട് പോരാനുള്ള സാധ്യത ഏറെയാണ് മേല്പറഞ്ഞ സന്ദർഭത്തിൽ ശൃംഖലയുടെ ഘടനാപരമായ സവിശേഷതകൾക്ക് പൂർണമായ തോതിൽ ഒരു ചലനാത്മകമായ വ്യതിയാനം സംഭവിക്കുന്നതായി നമുക്ക് കാണാനാകും എന്നാൽ ഈ കാണുന്ന ഫൈബറുകളെ പരസ്പരം ക്രോസ്സ് ലിങ്ക് ചെയ്യുകയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഒരു ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ അവ ശൃംഖലയിൽ ഉടനീളം വ്യാപിക്കുന്നതായി നമുക്ക് കാണാനാകും അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ശൃംഖല ഒന്നിച്ച് മേല്പറഞ്ഞ ഫോഴ്സിനെ പ്രതിരോധിക്കുന്നതായി നമുക്ക് വ്യക്തമാകുന്നു ആയതിനാൽ ക്രോസ്സ് ലിങ്ക് ചെയ്യപ്പെടാത്ത ഒരു ശൃംഖലയിൽ പ്രകടമാകുന്ന പ്രതികരണമെന്നത് ക്രോസ്സ് ലിങ്ക് ചെയ്ത ശൃംഖലകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അലൈൻമെന്റിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് മേല്പറഞ്ഞ ശൃംഖലകൾ അതീവ മൃദുലമാണ് ആയതിനാൽ അവയുടെ ഘടനാപരമായ സവിശേഷതകൾ നിർണ്ണയിക്കുന്നതിനായി നമുക്ക് ഏത് തരം ഉപകരണം ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം കൊളാജെൻ ശൃംഖലകളുടെ സ്റ്റിഫ്നെസ്സ് ഏതാണ്ട് 1 kPa ലിന് തുല്യമാണ് ഇത് തീർത്തും അതിമൃദുലമായ ഒരവസ്ഥയാണ് ആയതിനാൽ പരമ്പരാഗത മെറ്റീരിയൽ സയൻസ് പഠനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഇൻഡെൻഞ്ചേഴ്സ് പോലുള്ള ദൃഢമായ വസ്തുക്കളുടെ ഘടനാപരമായ സവിശേഷതകൾ നിർണ്ണയിക്കുന്ന ഉപകരണങ്ങൾ നമുക്കിവിടെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ റെയോമീറ്ററുകളുടെ സഹായം തേടുന്നത് അപ്പോൾ എന്താണീ പറഞ്ഞ റെയോമീറ്റർ ഈ കാണുന്നത് റെയോമീറ്ററിന്റെ ഒരു രേഖാചിത്രമാണ് ഇവിടെ സാംപിളിനെ ഇവയ്ക്കിടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്വിച്ചിന്റെ താഴ്ഭാഗം ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ മുകൾഭാഗമാകട്ടെ ഭ്രമണം ചെയ്യുന്ന രീതിലായാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മോർട്ടാറും പെസെലും പോലെയാണ് ഇവയുടെ പ്രവർത്തനം അതായത് എപ്രകാരമാണോ ഒരു മോർട്ടാറിനുള്ളിൽ വെച്ച സാംപിളിനുമേൽ പെസെൽ ഉപയോഗിച്ച് അല്പം ബലം നൽകി തിരിക്കുമ്പോൾ സാംപിൾ നല്ല പോലെ പൊടിഞ്ഞുകിട്ടുന്നത് അതുപോലെ തന്നെയാണ് മേല്പറഞ്ഞ റെയോമീറ്ററെന്ന ഉപകരണവും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഇതിലൂടെ നമുക്ക് സാംപിളിന്റെ ഷിയർ മോഡുലസ് പോലുള്ള ഷിയർ ഗുണങ്ങൾ കണ്ടെത്താവുന്നതാണ് സാംപിളിന്റെ പോയ്സോൺ റേഷ്യോ നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തി നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നിർണ്ണയിക്കാവുന്നതാണ് റെയോമീറ്ററിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മുടെ കൈവശം ഒരു സാംപിൾ ഉണ്ട് ഇതിനെ നമ്മൾ കറക്കുമ്പോൾ അതിന്റെ ഭ്രമണത്തിന്റെ തോത് നമ്മൾ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ എത്രത്തോളം നിരക്കിൽ സാംപിളിനെ ഇൻഡെന്റ് ചെയ്യാമെന്നും നമുക്ക് തീരുമാനിക്കാനാകും ഇവിടെ നിയതമായ ഒരു സ്ട്രെയിൻ നൽകികൊണ്ട് എത്രത്തോളം സാംപിളിനെ ഇൻഡെന്റ് ചെയ്യാമെന്നും അതിലൂടെ നമുക്ക് ഭ്രമണത്തിന്റെ ആംപ്ലിട്യൂഡും ഫ്രീക്വൻസിയും നിയന്ത്രണവിധേയമാക്കുവാൻ സാധിക്കും ഇവിടെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള രണ്ട് ഘടകങ്ങളിൽ ഒന്ന് സ്ട്രെയിൻ ആംപ്ലിട്യൂഡും മറ്റൊന്ന് ഫ്രീക്വൻസിയുമാണ് ഒരു ഖരരൂപത്തിലുള്ള വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം τ Gγ എന്നും ദ്രവരൂപത്തിലുള്ള വസ്തുവിനെ സംബന്ധിച്ച് τ µγ എന്നും നമുക്ക് എഴുതാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു ഓസിലേറ്ററി ഫീൽഡ് പ്രയോഗിക്കുകയാണ് അങ്ങനെയെങ്കിൽ γ യെ γ0sinωt എന്നെനിക്ക് രേഖപെടുത്താവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഒരു ഓസിലേറ്ററി സ്ട്രെയിൻ നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സ്ട്രെസ് ഫീൽഡ് എന്നത് σ0sin ωt δ എന്നാകുന്നു മേല്പറഞ്ഞ സമവാക്യത്തിനെ വിപുലീകരിക്കുകമ്പോൾ σ എന്നത് γ0G'SinωtG"Cosωt എന്ന് നമുക്ക് ലഭ്യമാകുന്നു പ്രസ്തുത സമവാക്യത്തിൽ നമുക്ക് രണ്ട് ഘടകങ്ങൾ ദൃശ്യമാണ് ഒന്ന് G'Sinωt ടെർമും മറ്റൊന്ന് G"Cosωt എന്ന ടെർമുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന G' എന്നത് സ്റ്റോറേജ് മോഡുലസും G" എന്നത് ലോസ്സ് മോഡുലസുമാണ് ഒരു ചിത്രസഹിതം ഞാനിതിനെ രേഖപെടുത്തുകയാണെങ്കിൽ അത് ഈ കാണുന്ന കർവ് പോലെയിരിക്കും ഇത് γ ഫങ്ഷനാണ് ഈ കാണുന്ന δ ഫേസ് ഷിഫ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ കാണുന്നത് γ യാണ് ഇത് σ പിന്നെ ഇത് സമയത്തിന്റെ സൂചകമാണ് ഇവിടെ ഉള്ള ഒരു ഘടകമെന്നത് σ γG'Sinωt G"Cosωt എന്നതാണ് ഈ ഘടകം അപ്പ്ളൈഡ് സ്ട്രെയിൻ ഫീൽഡുമായി ഒത്തുനോക്കുമ്പോൾ ഒരേ ഫേസിലാണ് നിലനിൽക്കുന്നത് അതിനർത്ഥം നിങ്ങൾ സ്ട്രെയിൻ പ്രയോഗിച്ചയുടനെ വസ്തുവിൽ വികലമായ ഡിഫോർമേഷൻ സംഭവിക്കുന്നു എന്ന് സാരം ഇവിടെ G' എന്ന സ്റ്റോറേജ് മോഡുലസ് ഇലാസ്റ്റിക് ഘടകവുമായി പൊരുത്തപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാകുന്നുണ്ട് നിങ്ങൾ സ്ട്രെയിൻ പിൻവലിക്കുമ്പോൾ യഥാർത്ഥ രൂപഘടനയിലേക്ക് മടങ്ങിപ്പോകാൻ സാധ്യതയേറെ ഉള്ളതിനാൽ ഊർജം നമുക്ക് തിരികെ ലഭ്യമാകുന്നതിനാലാണ് ഇതിനെ നമ്മൾ സ്റ്റോറേജ് മോഡുലസ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ G" ഒരു വിസ്കസ് കംപോണൻറ് ആണ് ഊർജം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെയാണ് ഇതിനെ നമ്മൾ ലോസ്സ് മോഡുലസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ECM ശൃംഖലകൾ സൃഷ്ടിക്കുമ്പോൾ G' G" എന്നീ ഘടകങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് പരാമർശമാണ് നടത്താൻ സാധിക്കുക വ്യത്യസ്തയിനം സാന്ദ്രതകളുള്ള ജെല്ലുകൾ നിർമ്മിക്കുമ്പോൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിവിധയിനം ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അതിനർത്ഥം നിങ്ങൾ ഈ കാണുന്ന അളവിനെ 1 mgml അല്ലെങ്കിൽ 2 mgml എന്ന തോതിൽ വ്യത്യാസപെടുത്തുകയാണെങ്കിൽ G' ന്റെ മൂല്യം കോൺസെൻട്രേഷന്റെ നിരക്കിന് മൂന്നിരട്ടിക്ക് സമാനമാകുകയും അന്നേരം കൊളാജെൻ ജെല്ലുകളെ സംബന്ധിച്ചിടത്തോളം x ന്റെ വില മൂന്ന് എന്ന് ലഭ്യമാകുകയും ചെയ്യുന്നു നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മെട്രിക്സിന് ദൃഢത പ്രധാനം ചെയ്യുവാൻ അതിന്റെ അളവിൽ വർദ്ധനവ് വരുത്തിയാൽ മതി കോശങ്ങൾ നേരിട്ട് ജെല്ലുമായി ബന്ധം പുലർത്തുന്നവയായതിനാൽ അളവിൽ വർദ്ധനവ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ജെല്ലിന്റെ സ്റ്റിഫ്നെസ്സിലും അതുപോലെ തന്നെ ലിഗാൻഡ് ഡെൻസിറ്റിയിലും വ്യക്തമായ മാറ്റം പ്രകടമാകുന്നുണ്ട് മേല്പറഞ്ഞ സാഹചര്യത്തിൽ കൊളാജെൻ ജെല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ന്യൂനത ഉടലെടുക്കുന്നുണ്ട് ജെല്ലിന്റെ ദൃഢതയെ ഒരു കോൺസ്റ്റന്റായി നിലനിർത്തി ലിഗാൻഡ് ഡെൻസിറ്റിയുടെ സ്വതന്ത്രമായ പ്രഭാവം പ്രകടമാകണമെങ്കിൽ നമുക്ക് കൊളാജെൻ ജെല്ലുകൾക്ക് പകരം മറ്റേതെങ്കിലും സിന്തറ്റിക് പ്രതലങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും അങ്ങനെയാകുമ്പോൾ അനായാസേന അവയുടെ ദൃഢത നമ്മുടെ കരങ്ങളിൽ നിയന്ത്രണ വിധേയമായിരിക്കും എന്ന് മാത്രമല്ല പ്രവർത്തനക്ഷമമായ കൊളാജെൻ പോലുള്ള ECM പ്രോട്ടീനുകളെ പ്രതലങ്ങൾക്ക് മേൽ നിരത്തുവാനും സാധിക്കും നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇനി മറ്റ് വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി മുൻപ് സൂചിപ്പിക്കപ്പെട്ട ലീനിയർ vs നോൺ ലീനിയർ വസ്തുക്കളുടെ ഭാഗത്തേക്ക് തിരികെപോകേണ്ടതുണ്ട് വ്യത്യസ്തമായ ദൃഢതകളുള്ള വിവിധയിനം വസ്തുക്കൾ പ്രതലങ്ങളായി ഉപയോഗിക്കുമ്പോൾ പ്രകടമാകുന്ന കോശങ്ങളുടെ വ്യാപനമാണ് ഞാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒന്ന് ലീനിയർ ഇലാസ്റ്റിക് വസ്തുവായ പോളിഅക്രിലമൈഡ് ഹൈഡ്രോജെല്ലാണ് മറ്റൊന്ന് ഏതെങ്കിലും ഒരു നോൺ ലീനിയറായ വസ്തുവാണ് ഈ കാണുന്ന ലീനിയറായ വസ്തുവിന്റെ ദൃഢതയുടെ നിരക്കിൽ വർദ്ധനവ് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതിനുമേൽ നിലയുറപ്പിച്ച കോശങ്ങൾ മുൻപത്തേക്കാളേറെ വിരാചിക്കുന്നതായി നമുക്ക് കാണാനാകും എന്നാൽ ഈ കാണുന്ന ത്രെഷോൾഡ് അഥവാ പരിധിയെത്തുമ്പോൾ കോശങ്ങളുടെ വ്യാപനം പൂരിതമാകുന്നു എന്നാൽ ഒരു നോൺ ലീനിയറായ വസ്തുവിന്റെ കാര്യത്തിൽ സ്ഥിതി മറ്റൊന്നാണ് വസ്തുവിന്റെ അളവോ പ്രാരംഭഘട്ടത്തിലെ ദൃഢതയുടെ നിരക്കോ ഒന്നും മേല്പറഞ്ഞ പ്രതലത്തിലിൽ പ്രകടമാകുന്ന കോശങ്ങളുടെ വ്യാപനത്തിനെ സ്വാധീനിക്കുന്നില്ല എന്നതാണ് വസ്തുത അതായത് ദൃഢതയുടെ നിരക്കിൽ വർദ്ധനവുണ്ടാകുമ്പോൾ നിയതമായ തോതിൽ ചില പുനഃക്രമീകരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് സാരം പ്രാരംഭഘട്ടത്തിലുള്ള ദൃഢത എന്തുമാകട്ടെ കോശങ്ങളെ മേല്പറഞ്ഞ പ്രതലങ്ങൾക്ക് മുകളിൽ നിലയുറപ്പിക്കുമ്പോൾ അവ മെട്രിക്സിനെ പിടിച്ചുവലിക്കുകയും മെട്രിക്സിന്റെ രൂപഘടനയിൽ വ്യതിയാനം കൊണ്ടുവരുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ സ്ട്രെയിൻ സ്റ്റിഫെനിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഫൈബ്രിനിനോട് താരതമ്യം ചെയ്യുമ്പോൾ കൊളാജെൻ ജെല്ലുകളും സമാനമായ പ്രൊഫൈൽ കാഴ്ചവെക്കുന്നുണ്ട് സ്റ്റോറേജ് മോഡുലസിനെ സ്ട്രെയ്നിന് എതിരെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നിശ്ചിത കോൺസെൻട്രേഷനിൽ സ്റ്റോറേജ് മോഡുലസിന്റെ നിരക്ക് കോൺസ്റ്റന്റായും സ്ട്രെയ്നിന്റെ മൂല്യം ഒരു പരിധിക്കപ്പുറം കടന്നാൽ മേല്പറഞ്ഞ സ്റ്റോറേജ് മോഡുലസിന്റെ നിരക്കിൽ പതിയെ വർദ്ധനവ് പ്രകടമാകുകയും ചെയ്യുന്നു ആയതിനാൽ ഇതിന്റെ പ്രകൃതം നോൺ ലീനിയറായി മാറുന്നു എന്ന് നമുക്ക് കാണാനാകും മേൽ സൂചിപ്പിക്കപ്പെട്ട പ്രതിഭാസമാണ് സ്ട്രെയിൻ സ്റ്റിഫെനിങ് ഇവിടെ ഈ കാണുന്ന ചുവന്ന രേഖ മറ്റൊരു വേരിയബിളിനെയാണ് സൂചിപ്പിക്കുന്നത് കോൺസെൻട്രേഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ സ്റ്റിഫ്നെസ്സിൽ ഗണ്യമായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇനീഷ്യൽ കർവിന് മുകളിലായി ചുവന്ന വര ആദ്യം പരന്നതായും പിന്നീട് ഉയർന്ന് മുകളിലേക്ക് നീങ്ങുന്നതായും നമുക്ക് കാണാനാകുന്നത് രണ്ട് വ്യത്യസ്ത സ്വതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ കോശങ്ങൾക്ക് കൊളാജെൻ ജെല്ലുകളെ ദൃഢപ്പെടുത്തുവാൻ സാധിക്കും നിശ്ചിതമായൊരു ലിഗാൻഡ് ഡെൻസിറ്റിയിൽ നിയതമായ ഒരു ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ ജെല്ലിന് കൂടുതൽ ദൃഢത പ്രാപ്യമാകുന്നു രണ്ടാമത്തെ മാർഗ്ഗമെന്തെന്നാൽ കോൺസെൻട്രേഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ സ്റ്റിഫ്നെസ്സിൽ ഗണ്യമായ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ വ്യത്യസ്തമായ സ്റ്റിഫ്നെസുകളുള്ള മെറ്റീരിയലുകൾ നമുക്ക് ലഭ്യമാകുന്നു മേല്പറഞ്ഞ സ്ട്രെയിൻ സ്റ്റിഫെനിങ് എന്ന പ്രതിഭാസത്തിന് നിധാനമാകുന്ന സ്വഭാവഗുണമെന്താണ് എന്ന ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത് നേരത്തെ ഞാൻ വരച്ചത് പ്രകാരം സ്ട്രെയ്നിന്റെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവുണ്ടാകുമ്പോൾ വ്യക്തിഗത ഫൈബറുകൾ സ്ട്രെയിൻ പ്രയോഗിക്കപ്പെടുന്ന അതെ ദിശയിൽ തന്നെ വിന്യസിക്കുന്നതായി നമുക്ക് കാണാനാകും നിയതമായ ഒരു ശൃംഖലയുണ്ട് എന്നതിന് വിപരീതമായി ഫൈബറുകളെല്ലാം ഒരേ ദിശയിൽ അണിനിരത്തപ്പെട്ടാൽ പിന്നീട് ഉടലെടുക്കുന്ന സ്റ്റിഫ്നെസ്സും ഈ കാണുന്ന ദിശയിൽ തന്നെയാകും വർദ്ധനവ് പ്രകടമാക്കുക ആയതിനാൽ മേല്പറഞ്ഞ സ്റ്റിഫ്നെസ്സിനെ ഒരു ഏകീകൃത ദിശയിൽ ഉടലെടുക്കുന്ന ഒരു ഐസോട്രോപിക് ഇൻവെൻഷനായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ജെല്ലിനുള്ളിലെ ഫൈബറുകളുടെ ഓറിയന്റേഷനിൽ ലളിതമായൊരു പരീക്ഷണത്താൽ ഉലച്ചിൽ കൊണ്ട് വരുന്നതിലൂടെ നമുക്ക് ഇവയുടെ ദൃഢത കണ്ടുപിടിക്കാനാകും ഈ കാണുന്ന കൊളാജെൻ ജെല്ലിൽ ഫൈബറുകൾ വിവിധദിശയിലാണ് വിന്യസിക്കുന്നത് മെട്രിക്സിനെ ഈ കാണുന്ന ആക്സിസിനെ ആധാരമാക്കി വലിച്ച് പ്രസ്തുത രീതിയിൽ ഞാൻ അണിനിരത്തുകയാണ് ഫൈബറുകളുടെ ശരാശരി ഓറിയന്റേഷൻ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവ ഏതാണ്ട് ഇതുപോലെ ഒരു യൂണിഫോം നോർമൽ ഡിസ്ട്രിബ്യുഷനിലായിരിക്കും അതായത് ഞാൻ ഇവയെ അണിനിരത്താൻ ശ്രമിക്കുംതോറും ഇവ ഈ കാണുന്ന ദിശയിൽ അല്ലെങ്കിൽ മറ്റൊരു ദിശയിൽ ഒരു പോലെ വിന്യസിക്കാനുള്ള സാധ്യത സമതുല്യമാണ് എന്നതാണ് വസ്തുത പതിയെ അവയെല്ലാം ഒരേ ദിശയിൽ തന്നെ അണിനിരക്കുന്നതായി നമുക്ക് കാണാനാകും ആയതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ശരാശരി ആക്സിസിലും ആംഗിളിലും ഗണ്യമായ വ്യതിയാനം പ്രകടമാകുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രത്യേക സന്ദർഭത്തിൽ എല്ലാ ഫൈബറുകളും പൂജ്യത്തിന് നേരെ അണിനിരക്കുന്നതായി നമുക്ക് കാണാനാകും ജെല്ലുകളുടെ സ്റ്റിഫെനിങിലേക്ക് നയിക്കുന്ന പ്രക്രിയയും ഇത് തന്നെയാണ് മേല്പറഞ്ഞ ശൃംഖല ക്രോസ്സ് ലിങ്കഡ് അല്ലായെങ്കിൽ നമ്മൾ ചെലുത്തുന്ന ഫോഴ്സ് പതിയെ പിൻവലിക്കുമ്പോൾ ഫൈബറുകൾ അവയുടെ അന്തിമ ഘടനയിൽ തന്നെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാനാകും ചുരുക്കിപ്പറഞ്ഞാൽ ഇതിന് ശേഷം തിരികെ പഴയ ഘടനയിലേക്ക് ഒരു മടക്കം സാധ്യമല്ല എന്ന് വ്യക്തം ക്രോസ്സ് ലിങ്കിങിലൂടെ മാത്രമേ നമുക്ക് മേല്പറഞ്ഞ പ്രക്രിയ സാധ്യമാകൂ എന്നതാണ് വസ്തുത ഇവയെ ഇഴചേർക്കുക എന്ന് സാരം നിങ്ങളുടെ കൈവശമുള്ള രണ്ട് ഫൈബറുകൾ ഈ കാണുന്ന ഭാഗത്ത് വെച്ച് ക്രോസ്സ് ലിങ്ക് ചെയ്യപ്പെട്ടു എന്ന് കരുതുക അവയിൽ നിയതമായ ഒരു ഫോഴ്സ് ചെലുത്തി ഈ കാണുന്ന ദിശയിൽ അണിനിരത്താൻ ശ്രമം നടത്തിയാൽ തീർച്ചയായും അവ അതിനാധാരമായി അണിനിരക്കും എന്നാൽ മേൽ പ്രയോഗിക്കപെട്ട ഫോഴ്സിനെ നമ്മൾ പതിയെ പിൻവലിക്കുകയാണെങ്കിൽ ഫൈബറുകൾ അവയുടെ പഴയ ഘടനയിലേക്ക് സാവകാശം മടങ്ങുന്നതായി നമുക്ക് കാണാനാകും മേല്പറഞ്ഞ പരീക്ഷണത്തിലൂടെ ഇവയുടെ ആംഗിളിന്റെ ഡിസ്ട്രിബ്യുഷനെ പുള്ളിങ്റെയും അതുപോലെ തന്നെ ക്രോസ്സ് ലിങ്കിങിന്റെയും ഫങ്ഷനായി നമുക്ക് രേഖപെടുത്താവുന്നതാണ് ക്രോസ്സ് ലിങ്ക് ചെയ്യപ്പെടാത്ത ഒരു ജെല്ലാണ് നിങ്ങൾ രൂപപ്പെടുത്തി എടുത്തതെങ്കിൽ ആംഗിളിന്റെ മൂല്യം ക്രമാനുഗതമായി വർദ്ധിക്കുകയും പതിയെ അന്തിമ ഘടനയിലേതുപോലെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ കൈവശമുള്ള ശൃംഖലകൾ ക്രോസ്സ് ലിങ്ക് ചെയ്തവയാണെങ്കിൽ അവയിൽ നൂറ് ശതമാനം ക്രോസ്സ് ലിങ്കിങ് നടന്നോ എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് മുൻപിൽ ഒരു മാർഗ്ഗമുണ്ട് അവയുടെ ബേസൽ സ്റ്റിഫ്നെസ്സിന്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ടോ എന്നും നിരന്തരം അവ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നുണ്ടോ എന്നും കണ്ടെത്താൻ സാധ്യമായാൽ മേല്പറഞ്ഞ കാര്യം സ്ഥിതീകരിക്കുവാൻ നമുക്ക് സാധ്യമായേക്കും നമുക്ക് ഇവിടെ ഒരു ഓസിലേറ്റർ പ്രയോജനപ്പെടുത്തി പഠനം നടത്താം ഇവിടെ sinωt യെ ആധാരമാക്കി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ സ്ട്രെയിൻ γγ0sinωt എന്ന് നമുക്ക് രേഖപെടുത്താവുന്നതാണ് അങ്ങനെയെങ്കിൽ പ്രസ്തുത ആംഗിളിന്റെ ഡിസ്ട്രിബ്യുഷൻ ഈ കാണുന്ന രീതിയിൽ വ്യതിചലിച്ചു കൊണ്ടേയിരിക്കും ഈ ഭാഗത്ത് വെച്ച് നമ്മൾ ഫോഴ്സ് പിൻവലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആംഗിളിന്റെ നിരക്കിലും കുറവ് പ്രകടമാകുന്നു ശേഷം വീണ്ടും നമ്മൾ ഫോഴ്സ് ചെലുത്തുകയാണെങ്കിൽ ആംഗിൾ വീണ്ടും പഴയ ഉയരങ്ങളിലേക്ക് നീങ്ങുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു അതായത് ഇവിടെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോഴ്സിന്റെ അഭാവത്തിൽ ആംഗിൾ പൂർവഘടനയിലേക്ക് മടങ്ങിവരുന്നതായി നിങ്ങൾക്ക് ദൃശ്യമാകും കൊളാജെനും അതിന്റെ മറ്റ് ഘടനാപരമായ സവിശേഷതകളെ കുറിച്ചുമുള്ള ചർച്ചയാണ് പ്രസ്തുത ലെക്ച്ചറിൽ ഇതുവരെ നടന്നത് ഈ കാണുന്ന രണ്ട് ഗവേഷണ പ്രബന്ധങ്ങൾ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ടവയാണ് കോശങ്ങൾ നോൺ ലീനിയർ സ്റ്റിഫ്നെസ്സിനെ തിരിച്ചറിയുന്നതെങ്ങനെ ഇതിന് മറുപടിയെന്നോണം ഇവയുടെ ഘടനാപരമായ സങ്കേതങ്ങളിൽ എപ്രകാരമാണ് മാറ്റം പ്രകടമാകുന്നത് മേല്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഒന്നാമത്തെ പ്രബന്ധം നൽകുന്നത് രണ്ടാമത്തെ പ്രബന്ധമാകട്ടെ ഫൈബറുകൾക്ക് മേൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഓറിയന്റേഷൻ അലൈൻമെന്റ് ക്രോസ്സ് ലിങ്കിങ് എന്നിവയുടെ പ്രഭാവത്തെ കുറിച്ച് വാചാലമാകുന്ന രചനയാണ് മേല്പറഞ്ഞ രണ്ട് പ്രബന്ധങ്ങളും PLoS One എന്ന ഓപ്പൺ ആക്സസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചവയാണ് ഇവ നിങ്ങൾക്ക് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ലാതെ തന്നെ എളുപ്പത്തിൽ ഡൌൺലോഡ് ചെയ്യാവുന്നവയാണ് പ്രസ്തുത കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് നിയതമായ റീഡിങ് അസൈന്മെന്റുകൾ നൽകുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായി ഏതാനും ചില ഗവേഷണ പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നതായിരിക്കും ആയതിനാൽ ഗവേഷണ പ്രബന്ധങ്ങൾ മറക്കാതെ വായിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന് സാധ്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ രീതി പിന്തുടരുവാൻ പ്രയാസമായേക്കും പ്രധാന പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളും മറ്റ് പ്രശ്നോത്തരികളും ഇവയെ ആസ്പദമാക്കിയിട്ടുള്ളവയിരിക്കും ഇത് കൃത്യമായി പിന്തുടരേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ ഇതിലൂടെ നമ്മൾ കൊളാജെൻ എന്ന വിഷയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചയ്ക്ക് വിരാമമിടുകയാണ് പ്രസ്തുത ലെക്ച്ചറിൽ ഫൈബ്രോനെക്റ്റിൻ എന്ന ഒരു പ്രോട്ടീനിനെ കൂടി നമ്മൾ പരിചയപെടുന്നുണ്ട് സമയപരിധി മൂലം ഞാൻ നിങ്ങൾക്കായി ഫൈബ്രോനെക്റ്റിനെ കുറിച്ച് ഒരു ചെറിയ അവതാരിക നൽകാം സമാനമായ രണ്ട് പോളിപെപ്റ്റൈഡ് ചെയ്നുകളിൽ ഡൈ സൾഫൈഡ് ബോണ്ട് ഉപയോഗപ്പെടുത്തി ഡൈമർ രൂപപെടുമ്പോഴാണ് നാം അതിനെ ഫൈബ്രോനെക്റ്റിൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കോശങ്ങളുടെ എഡ്ഹെഷന് ഉതകുന്ന RGD സീക്വൻസുകൾ ഇവയിൽ ദൃശ്യമാണ് എന്നത് കൌതുകകരമായ ഒരു വസ്തുതയാണ് RGD യുടെ എഡ്ഹെസിവ് പെപ്റ്റൈഡുകൾ മാത്രം ഉപയോഗപ്പെടുത്തി കോശങ്ങളുടെ വ്യാപനവും അതുപോലെ തന്നെ എഡ്ഹെഷനും സാധ്യമാക്കാവുന്നതാണ് സ്ലൈഡ് ടൈം 2422 നോക്കിയാൽ ഫൈബ്രോനെക്റ്റിനുകൾ കൊളാജെൻ പ്രോട്ടിയോഗ്ലൈക്കൻ പോലുള്ള ഘടകങ്ങളുമായി സംബന്ധിക്കുന്നതായി നമുക്ക് കാണാനാകും ഇതിലൂടെ കോശങ്ങളുടെ മൈഗ്രേഷൻ ഡിഫറെൻസിയേഷൻ വൂണ്ട് ഹീലിംഗ് പോലെയുള്ള സുപ്രധാന പ്രക്രിയകളിൽ ഇവ സുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇവയെ പ്രധാനമായും എഡ്ഹെറെന്റ് കോശങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് മേല്പറഞ്ഞ ഫൈബ്രോനെക്റ്റിന്റെ രൂപഘടന വരയ്ക്കുകയാണെങ്കിൽ അവയിൽ ഈ കാണുന്നത് പോലെ അനേകം ഘടകങ്ങൾ നമുക്ക് കാണാനാകും ഇതിന്റെ അറ്റത്തായി ഇത്തരത്തിലൊരു ഡൈ സൾഫൈഡ് ബോണ്ടും സദൃശ്യമാണ് ഈ കാണുന്ന വ്യക്തിഗത ഡൊമെയ്നുകളെ നമുക്ക് FN I FN II FN III എന്നിങ്ങനെ സൂചിപ്പിക്കാവുന്നതാണ് നിരവധി ഘടകങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായി ഇത്തരം പ്രോട്ടീനുകൾ പ്രവർത്തയോഗ്യമാകുമ്പോൾ അവയിലെ എല്ലാ ഡൊമെയ്നുകളും ചേർന്ന് ഒരൊറ്റ ഘടനയിലേക്ക് ചുരുങ്ങാതായി നമുക്ക് കാണാനാകും സിഗ്നലിങ് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രോട്ടീൻ ഫോൾഡിങ് എന്ന പ്രക്രിയയുടെ പ്രസക്തിയെന്താണ് പ്രോട്ടീനുകളുടെ ഫോൾഡിങ് കൈനെറ്റിക്സിനെ ഫോഴ്സുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു ഇവയുടെ പ്രവർത്തന സവിശേഷതകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന സുപ്രധാന ചോദ്യങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞുനിർത്തുന്നത് ഫൈബ്രോനെക്റ്റിനെ കുറിച്ചുള്ള ഒരു ലളിതമായ ആമുഖം മാത്രമാണ് മേല്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഫൈബ്രോനെക്റ്റിനെ സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങളിലേക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും